നമ്മൾ ഇനി കുറച്ചു കൂടി വിഷയങ്ങൾ ചർച്ച ചെയ്യും അതും ആമുഖ സ്വാഭാവമുള്ളതാണ് പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്കു തുടങ്ങാം ഈ പ്രഭാഷണത്തിൽ എന്താണ് ശരിക്കും സോഫ്റ്റ്വെയർ പ്രോജക്ടസ് എന്നാണ് നമ്മൾ എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പ്രോജക്ടുകളുടെ തരങ്ങൾ ഏതോക്കെയാണ് പ്രധാനമായി രണ്ടു തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോജക്ടുകളാണു നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ഉൽപ്പന വികസനം മറ്റൊന്ന് സേവന പദ്ധതികളാണ് എന്തൊക്കെയാണ് പ്രോജക്ട് മാനേജരുടെ പ്രധാന പ്രവർത്തനങ്ങൾ കൂടാതെ പരമ്പരാഗത താരതമേന്യ ആധുനിക പ്രോജക്ടുകളെ കുറിച്ചും പിന്നീടു നമ്മൾ ചർച്ച ചെയ്യും ആദ്യം എന്താണ് പ്രോജക്ട് എന്ന് നോക്കാം ഇപ്പോൾ നിഘണ്ടുവിലേക്കു നോക്കിയാൽ പല നിഘണ്ടുവിൽ നിരവധി നിർവചനങ്ങൾ നമുക്കു കിട്ടും ഉദാഹരണത്തിനു ഒരു ആസൂത്രിത ജോലി കണ്ടെത്തുക ഒരുവലിയ കാര്യം ഉദാഹരണം ഒരു പൊതുമരാമത്തു പദ്ധതി അങ്ങിനെ അങ്ങിനെ പക്ഷേ വിവിധ തരത്തിലുള്ള നിഘണ്ടു നിർവചനങ്ങൾ നിങ്ങൾ നോക്കിയാൽ പ്രധാന ആശയം എന്നത് അതൊരു ആസൂത്രിത ജോലിയും വലിയയൊരു ജോലിയുമാണ് ഒരു പ്രോജക്ടിനു രണ്ടു പ്രധാന പ്രതീകങ്ങൾ ആണു ഉള്ളത് ആദ്യത്തേത് എന്നത് അതൊരു ആസൂത്രിത ജോലി ആണ് രണ്ടാമത്തേതു അതൊരു നിസാരമല്ലാത്തതു അതൊരു വലിയ ജോലി ആണ് പക്ഷേ ഇനി നമ്മൾ പ്രോജക്ട് എന്നത് സാങ്കേതികമായി നോക്കാൻ പോകുകയാണ് പ്രോജക്ട് എന്നത് PMBOK യിൽ നിരൂപിക്കുന്നതു പ്രോജക്ട് മാനേജർസ് ബുക്ക് ഓഫ് നോളഡ്ജ് അഞ്ചാമത്തെ പതിപ്പ് ഒരു സമാനമില്ലാത്ത ഉത്പന്നമോ സേവനമോ ഫലമോ ഉണ്ടാകാനുള്ള ഒരു താത്കാലിക ശ്രമമായി പ്രോജക്ടിനെ നിർവചിക്കപെടുന്നു എന്നാൽ ഏതു അസ്രൂതിത പ്രവർത്തനമാണെന്നും വലിയ ജോലി ആണാണെന്നും സൂചിപ്പിക്കുന്നു പ്രോജക്ട് എന്നത് ഒരു ബജറ്റ് ഉള്ളിൽ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തു എടുക്കുന്നതാണ് എന്നും നമുക് പറയാൻ സാധിക്കും അതിനാൽ അസ്രൂതിതമായ പ്രവർത്തനത്തിനും ഒരു വലിയ പ്രവർത്തനത്തിനും പുറമെ മറ്റു ചില കാര്യങ്ങളും നമുക്കു ഉണ്ട് അതായതു ഒരു സമയപരിധി ഉണ്ട് അതിനുള്ളിൽ പ്രവർത്തനം നമ്മൾ തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ് ഇപ്പോൾ നമുക് പ്രോജക്ടിൻറെ നിർവചനം കുറച്ചുകൂടി വ്യക്തമായി അതായതു ഇതൊരു അസ്രൂതിത പ്രവർത്തനം ആണു ഇതൊരു വലിയൊരു പ്രവർത്തനം ഇതു സമയപരിധിക്കുള്ളിൽ അതുപോലെ തന്നെ ബജറ്റ് നുള്ളിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട് എല്ലാ സോഫ്റ്റ്വെയർ പ്രോജക്ടസ് ശരിയാണ് എന്താണ് ഒരു സോഫ്റ്റ്വെയർ എല്ലാ പ്രോജക്ടസ് അവ ഇനിപ്പറയുന്ന സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു നിശ്ചിത കാലയളവിൽ പ്രോജക്ട് പൂർത്തിയാകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ഷോപ്പിംഗ് മാൾ വർഷങ്ങളായി വിൽപന നടക്കുന്നു എല്ലാ ദിവസവും കൌണ്ടറിൽ വിൽപന നടത്തുന്ന വില്പനക്കാരുണ്ട് അതൊരു പ്രോജക്ട് ആയിരിക്കുമോ ഇല്ല കാരണം അത്നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമുക്കു ഒരിക്കലും അത് പൂർത്തിയാകുന്ന കാലയളവിനെ ബന്ധപെടുത്താൻ കഴിയില്ല അതുകൊണ്ടു തന്നെ എല്ലാ പ്രോജക്ടുകളും നിശ്ചിത കാലയളവിൽ ഉള്ളതും വലിയ പ്രോജക്റ്റും നിസാരമല്ലാത്തതും അവർത്തനമല്ലാത്തതും കൂടാതെ ഇവയ്ക്കു വിഭവങ്ങൾ ആവശ്യമാണ് ഓരോ പ്രോജക്റ്റും ഒന്നിലധികം ജോലികൾ അടങ്ങു്ന്ന വലുതാണ് ചില ജോലികൾ പൂർത്തിയാകുന്നത് വരെ മറ്റു ജോലികൾ ചെയ്യാൻ കഴിയാത്ത ജോലികൾ തമ്മിലുള്ള ഒരു മുൻഗണന ബന്ധം അവിടെ നിർവചിക്കാം ജോലികൾ പൂർത്തിയാക്കാൻ ഒരു സമയപരിധി ഉണ്ടെന്നു നിർവചിക്കാം ഈ കോഴ്സ് മുന്നോട്ടു പോകുമ്പോൾ പ്രോജക്ടുകളുടെ നിരവധി സോഫ്റ്റ്വെയർ ഉദാഹരണങ്ങൾ നമ്മൾ കാണും പക്ഷേ ഇനി നമുക് കുറച്ചു പ്രോജക്ടിന്റെ സോഫ്റ്റ്വെയർ അല്ലാത്ത ഉദാഹരണങ്ങൾ നോക്കാം ഒരു കല്യാണം അത് ഒരു പ്രോജക്ട് ആണ് നിങ്ങൾ അസ്രൂത്രണം ചെയ്യേണ്ടാതുണ്ട് ഇതു ഒരു വലിയ ജോലിയാണ് നിരവധി ഉപജോലികളും ഇതുമായി ബന്ധപ്പെട്ട ഒരു ബജറ്റ് ഉണ്ട് ഇതു പൂർത്തീകരിക്കാൻ ഒരു കാലയളവും ഉണ്ട് ബിടെക് ഡിഗ്രി B Tech degree ഒരു പ്രോജക്റ്റാണ് അതിനും ഒരു കാലയളവ് ഉണ്ട് ബിടെക് ഡിഗ്രി പൂർത്തീകരിക്കാൻ ഒരു ബജറ്റ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതു എങ്ങിനെ പൂർത്തീകരിക്കും എന്നുള്ളത് ആസ്രൂത്രണം ചെയ്യേണ്ടതുണ്ട് ഒരു വീടിന്റെ നിർമ്മാണം ഒരു പ്രോജക്ട് ആണ് ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതെ അതും ഒരു പ്രോജക്ട് ആണ് കാരണം പ്രചാരണം പൂർത്തീകരിക്കാൻ ഒരു കാലയളവ് ഉണ്ട് പ്രവർത്തനങ്ങൾ ആസ്രൂത്രണം ചെയ്യേണ്ടതുണ്ട് വേറെ പല പ്രവർത്തനങ്ങൾ ഉണ്ട് കൂടാതെ ഇതൊരു സങ്കീർണ്ണമായ പ്രവർത്തനം ആണ് എന്നാൽ നമുക് എന്താണ് കൃത്യം എന്ന് വ്യക്തമായി മനസിലാകാം ഇതുവരെ ധൌത്യം വളരെ ലളിതമാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതും ലളിതവുമായ ഒരു കൃത്യത്തിനു പ്രോജക്ട് മാനേജ്മെൻറ് ആവശ്യമില്ല ഒരു പ്രോജക്ടിന്റെ വിപരീതമായ ഒരു കൃത്യം എന്നത് നിസാരമായ ഒരു ലക്ഷ്യം നേടുന്നതിനായുള്ള ഒരു ചെറിയ ജോലിയാണ് ആവശ്യമായ പരിശ്രമം കുറച്ചു വൃക്തി മണിക്കൂറുകൾ മാത്രമാണ് അതിൽ ഒന്നോ രണ്ടോ ആളുകൾ ഉൾപ്പെടുന്നു ഒരു പ്രവർത്തി ചില പ്രോജക്ടിന്റെ ഭാഗം ആകാം അതും ആയിരിക്കണമെന്നില്ല കൂടാതെ ഒരു പ്രവർത്തി സാധാരണ നിങ്ങൾ ഇതിനകം ചെയ്ത മറ്റു ജോലികളുടെ ആവർത്തനമാണ് ഒരു കൃത്യത്തിൻറെ ചില ഉദാഹരണങ്ങൾ നമുക് നൽകാം ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കുക മാർകെറ്റിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങുക ഒരു ഓൺലൈൻ ബുക്കിങ്ങിൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇവയെല്ലാം നേരായ ജോലികളാണ് കൂടാതെ നിങ്ങൾ ഇതു പലതവണയായി ചെയ്തിട്ടും ഉണ്ടാകും നിങ്ങൾ പല തവണ പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകും പല തവണ ചോക്ലേറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ പല തവണ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടു ഇതൊക്കെ കുറച് നേരെയുള്ളതാണ് കുറച്ചു മണിക്കൂറിനുള്ളിൽ നമുക് ഏതു ചെയ്തു തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഏതുനേടുന്നതിന് ഒരു വലിയ കൂട്ടം ആവശ്യമില്ല സാധാരണഗതിയിൽ ഇതിനകം ചെയ്തതിന്റെ ആവർത്തനം ആണ് മറിച്ചു ഇതിനു വിപരീതമായി പ്രോജക്ട് എന്നത് കുറച്ചു കൂടി വലുതാണ് കൂടാതെ ചെയ്തു തീർത്തതിന്റെ ആവർത്തനം ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്കു എന്താണ് ഒരു കൃത്യം ഒരു പ്രോജക്ട് ഒരു പര്യവേഷണം എന്ന് വ്യക്തമായി മനസിലായി എന്ന് വിചാരിക്കുന്നു കൂടാതെ പ്രോജക്ട് മാനേജ്മെൻറ് എന്നത് പ്രത്യേകിച്ച് പ്രോജക്ടുകൾക്കു പ്രാധ്യാന്യമുള്ളതാണ് കൃത്യങ്ങൾക്കു വളരെ നിസാരമാണ് നേരയുള്ളതാണ് ഏതെങ്കിലും പ്രോജക്ട്മാനേജ്മെൻറ് ആവശ്യം വരുകയില്ല കൂടാതെ പര്യവേഷണം എന്നത് വളരെ വെല്ലുവിളിനിറഞ്ഞതാണ് കൂടാതെ അവിടെ പ്രോജക്ട് മാനേജ്മന്റ് പ്രവർത്തനരീതികൾ അനുയോജ്യമല്ല ഇപ്പോൾ നമുക് പ്രധാനപ്പെട്ട ആശയമായ പ്രോജക്ട് സ്റ്റേക്കഹോൾഡേഴ്സിനെ പറ്റി ഒന്നു കൂടി നോക്കാം പ്രോജക്റ്റിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന വ്യകതികളും സംഘടനകളും ആണ് പ്രോജക്ട് സ്റ്റേക്കഹോൾഡമാർ പ്രോജക്ട് നിർവഹണത്തിന്റെ അല്ലെങ്കിൽ പ്രോജക്ട് പൂർത്തീകരണത്തിന്റെ ഫലമായി അവരുടെ താല്പര്യങ്ങളെ ക്രിയാന്മഗമായി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം അവർ പ്രോജക്ടിലും അതിൻറെ ഫലങ്ങളിലും സ്വാധീനം ചെലുത്തിയേക്കാം ഒരു പ്രധാന കാര്യം നമ്മൾ ഇവിടെ പറയുന്നത് സ്റ്റേക്കഹോൾഡേഴ്സ് എന്ന് പറയുന്നവർ ഒന്നില്ലെങ്കിൽ അവർ പ്രോജക്ട് മാനേജർമാരാണ് അവർ പ്രോജക്ടിനെ അതിനുവേണ്ടി ഉണ്ടാകുന്ന സോഫ്റ്റെവെസിനെ ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെ നിയന്ത്രിക്കുന്നു പ്രോജക്ട് ഉണ്ടാകാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലെ അംഗങ്ങൾ പ്രോജക്ടിനു ധനസഹായം നൽകുന്ന സ്പോൺസർ ഇവരാണ് പ്രധാന സ്റ്റേക്കഹോൾഡേഴ്സ് ചിലപ്പോൾ വേറെയും സ്റ്റേക്കഹോൾഡേഴ്സ് ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു വെണ്ടർ അഥവാ വിൽപ്പനക്കാരൻ ആ വെണ്ടർ ചില ഔട്സോഴ്സ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക ആവാം അത് പ്രോജക്റ്റിന്റെ ഭാഗമായത് അയാൾ ഒരു സ്റ്റേക്കഹോൾഡർ ആയിരിക്കും കാരണം അയാൾക്കു ആശങ്കയുണ്ട് താല്പര്യമുണ്ട് പ്രോജക്ടിൽ താല്പര്യംഉണ്ട് പ്രോജക്ടിന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ പരാജയത്തിന്റെ ഫലം അയാളെ ബാധിക്കും എന്നാൽ നമുക് വെറുതെ സ്റ്റേക്കഹോൾഡേഴ്സിനെ രണ്ടായി തരം തിരിക്കാം ഒന്ന് ആഭ്യന്തര പ്രോജക്ട് സ്റ്റേക്കഹോൾഡേഴ്സ് അവർ സംഘടനയുടെ ആഭ്യന്തരവും സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവരുമാണ് കൂടാതെ ഇവിടെ ആഭ്യന്തര സ്റ്റേക്കഹോൾഡേഴ്സ് പ്രോജക്ട് മാനേജർമാരാണ് പ്രോജക്ട്കൂട്ടവും കൂടാതെ ഉയർന്ന നേതൃത്വം ഉള്ളവരാണ് പുറത്തുള്ള പ്രോജക്ട് സ്റ്റാക്കഹോൾഡേഴ്സ് ഉപയോക്താക്കളാണ് ഉപയോക്താക്കൾ പുറത്തുനിന്നവർ ആണെങ്കിൽ ചിലപ്പോൾ ഉപയോക്താക്കൾ വികസന സംഘത്തിൽ ഉള്ളവർ ആയിരിക്കും ഉദാഹരണത്തിന് വേറെ വിഭാഗം അല്ലെങ്കിൽ ഉപയോക്താക്കൾ ആകാം ചിലപ്പോൾ ഒരേ വിഭാഗത്തിൽ ഉള്ളവർ ആയിരിക്കാം അവ അവയുടെ തന്നെ ആവശ്യത്തിനായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ എന്നാൽ സാധാരണയായി ഉപയോക്താക്കൾ പുറത്തും വിൽപനക്കാർ മറ്റുപലതും ആണ് അതിനാൽ ഇവരാണ് പുറത്തെ പ്രോജക്ട് സ്റ്റേക്കഹോൾഡേഴ്സ് പ്രധാനപ്പെട്ട വേറെ ഒരു ആശയം ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോജക്ടിന്റെ സാധ്യതയെ കുറിച്ചാണ് പ്രോജക്റ്റിന്റെ സാധ്യത കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ പ്രോജക്ടിൽ കൈവരിക്കാൻ പോകുന്നത് എന്നാണ് ഈ പ്രോജക്ട് കൈവരിക്കാൻ പ്രോജക്ട് പൂർത്തിയാകാൻ ഫലങ്ങൾ കൈവരിക്കാൻ എന്തോകെയാണ് നിർബന്ധമായും ചെയ്യേണ്ടത് അതുകൊണ്ടു എന്താണ് നമ്മൾ പ്രോജക്ടിൽ ചെയ്യേണ്ടത് എങ്ങിനെ അത് ചെയ്യാൻ സാധിക്കും കൂടാതെ എന്തൊക്കെ കൈമാറാൻ സാധിക്കും അതിനാൽ ഇതൊക്കെയാണ് പ്രോജക്ട് സാധ്യത ഇപ്പോൾ നമ്മൾ ഇതിനെ പട്ടികയുടെ രൂപത്തിൽ എഴുത്തുയാണെങ്കിൽ നിർദിഷ്ട ലക്ഷ്യങ്ങളുടെ പട്ടികയാണ് അത് ചെയ്യേണ്ടത് എന്തൊക്കെ വിട്ടു കൊടുക്കണം പ്രോജക്ട് പൂർത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് സമയ പരിധി കൂടാതെ എന്താണ് ചെലവ് അതാണ് പ്രോജക്ട് സാധ്യത പ്രോജക്ട് തുടങ്ങു്ന്നതിനു മുൻപ് പ്രോജക്ട് മാനേജർ പ്രോജക്ട് സാധ്യതകളെ കുറിച്ച് മനസിലാക്കിയിരിക്കണംപ്രോജക്ട് പൂർത്തീകരിക്കാൻ പ്രോജക്ടിന്റെ ലക്ഷ്യം വേണ്ടത് കൃത്യങ്ങൾ ചെയ്തിരിക്കണം സമയപരിധി കൂടാതെ ചെലവ് പ്രോജക്ട് സാധ്യതയെ കുറിച്ച് ശരിയായി നിർവചിക്കാതെയോ പ്രോജക്ട് മാനേജർ പ്രോജക്ട് സാധ്യതയെ കുറിച്ച് ശരിയായി മനസിലാകാതെയോ ആണെങ്കിൽ ആ പ്രോജക്ട് സാധാരണ ഒരു പരാജയമായിട്ടാണു അവസാനിക്കുന്നത് പ്രോജക്ട് പരാജയത്തിന് കാരണമായേക്കാവുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് അവയിൽ ചിലതു ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പ്രോജക്ട്പരാജയപെടുന്നതിന്റെ രണ്ടു പ്രധാന കാരണങ്ങൾ വികാസന കൂട്ടം ഉപഭോക്താവിൻറെ ആവശ്യകതകൾ മനസിലാകുന്നില്ല എന്നതാണ് ആവശ്യകത വ്യക്തമാക്കൽ ഇവിടെ ശരിയായി നടന്നിട്ടില്ല രണ്ടാമത്തെ കാരണം പ്രോജക്ട് സാധ്യത മോശമായി നിർവചിക്കപെട്ടുണ്ട് അതായതു എന്താണ് ചെയ്യേണ്ടത് എന്താണ്ചുമലതകൾ എന്താണ് ബജറ്റ് സമയപരിധി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചുമതലകൾ എന്താണ് ബജറ്റ് സമയപരിധി എന്താണ് തുടങ്ങിയവ മാറ്റങ്ങൾ മോശമായി കൈകാര്യം ചെയ്യുന്നു എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാരണം വികസനം നടക്കുമ്പോൾ മാറ്റങ്ങൾ പതിവായി സംഭവിക്കുന്നു മാറ്റങ്ങൾ മോശമായി കൈകാര്യം ചെയ്യുന്നു തെരഞ്ഞെടുത്ത സാങ്കേതികവിദ്യ മാറുന്നു നിങ്ങൾ ഒരു വയറഡ് ആശയവിനിമയത്തിൽ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കാംവയേർഡ് ആശയവിനിമയം പക്ഷെ പെട്ടന്നു സാങ്കേതികവിദ്യ മാറുന്നു കൂടാതെ നിങ്ങൾ വയർലെസ്സ് ഉപയോഗിക്കേണ്ടി വരും അത് സോഫ്റ്റ്വെയർ ഇൽ കുറെ മാറ്റങ്ങൾ വരും ബിസിനസിന് മാറ്റങ്ങൾ ആവശ്യമാണ് അതായത് ചില ബിസിനസ് ആവശ്യങ്ങൾക്കായി സോഫ്റ്റ്വെയർ നേടാൻ താൽപര്യപ്പെടുന്ന ഉപഭോക്താവ്ബിസിനസ് ആവശ്യങ്ങൾ മാറി എന്ന് പെട്ടെന്ന് കണ്ടെത്തുന്നു ഉദാഹരണത്തിന് മുമ്പ് സ്റ്റോർ സന്ദർശിക്കുന്ന ഉപഭോക്താക്കളെ മാനേജ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമായിരുന്നു എന്നാൽ പെട്ടെന്ന് ഇത് ഒരു ഓൺലൈൻ സ്റ്റോറിൻറെ ഭാഗമായി തീർന്നു അവിടെ ഉപയോക്താക്കൾ കമ്പനി സന്ദർശിക്കുന്നില്ല ബിസിനസിന് അത്തരം സാഹചര്യങ്ങളിൽ സോഫ്റ്റ്വെയർ ആവശ്യമില്ല അതിനാൽ പാതിവഴിയിൽ ഉപഭോക്താവ് ചിലപ്പോൾ ഞങ്ങൾ നിങ്ങളോട് വികസിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് നോക്കുക എന്നു പറഞ്ഞേക്കാം ബിസിനസ് ആവശ്യങ്ങൾ മാറി ഞങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ആവശ്യമില്ല യാഥാർത്ഥ്യമല്ലാത്ത കാലാവധി സമയ പരിധി വളരെ അക്രമണന്മാകമായി സജ്ജമാകുമ്പോൾ ഡെവലപ്പർമാർ ഡിസൈൻ ആവശ്യകതകൾ പരിശോധന തുടങ്ങിയവയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുന്നു പ്രോജക്റ്റ് പരാജയമായി അവസാനിക്കുന്നു വികസന സംഘത്തിൽ അനുഭവ പരിചയം ഇല്ലാത്തവർ മോശം പ്രോജക്ട് മാനേജ്മെൻറ് തുടങ്ങിയ പരാജയപ്പെടാനുള്ള ചില കാരണങ്ങളാണ് എന്നാൽ സാധ്യത എങ്ങനെ നിർവചിക്കപ്പെടുന്നു പ്രോജക്റ്റ് സാധ്യത നിർവചിക്കാൻ പ്രോജക്റ്റ് മാനേജർ എന്താണ് ചെയ്യുന്നത് ബാരി ബൊഹേം അയാൾ തൻറെ W 3 H H തത്വം നൽകി അത് 5 Ws ഉം 2 H ഉംആണ് എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രോജക്ട് മാനേജർ വ്യക്തമായി അറിയേണ്ടത് 5 W s ആണ് അതിൻറെ ഉപയോഗം എന്തായിരിക്കും എന്ത് ചെയ്യും അതാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ വേണ്ടി അതു തീർക്കേണ്ട സമയത്ത് എന്തൊക്കെയാണ് സമയപരിധി കൾ ഒരു ഫംഗ്ഷന് ആരാണ് ഉത്തരവാദികൾ അതിനാൽ ആരൊക്കെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഏതെല്ലാം ഭാഗങ്ങൾ ആന്തരികമായി വികസിപ്പിക്കും ഏതൊക്കെ ഭാഗങ്ങൾ വിൽപ്പനക്കാരൻ ചെയ്യും കൂടാതെ മറ്റും എവിടെയാണ് സംഘടനാപരമായി സ്ഥിതി ചെയ്യുന്നത് അതാണ് അവർ ഡെവലപ്പർമാർ ആരാണ് വിവിധ ഓഫീസുകളിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടും വിൽപ്പനക്കാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സാങ്കേതികമായും മാനേജ്മെൻറ് ആയും ജോലി എങ്ങിനെ ചെയ്യും ലോകത്തിനും എത്രത്തോളം ആവശ്യമാണ് അതിനാൽ ചിലവ് നിർവചിക്കും റിസോഴ്സ് മാൻപവർ കോസ്റ്റ് ആകാം അത് കണക്ക് കൂട്ടൽ ഹാർഡ്വെയർ ചിലവ് തുടങ്ങിയവ ആകാം പ്രോജക്റ്റിനെ ഭാവിശരിയായി നിർവഹിക്കാൻ പ്രോജക്ട് മാനേജർക്ക് W5HH തത്വം വളരെ പ്രധാനമാണ് ഇപ്പോൾ മറ്റൊരു പ്രാഥമിക ആശയം നോക്കാം ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രൊജക്ടുകളുടെ തരം പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ പരിശോധിച്ചു സോഫ്റ്റ്വെയർ പ്രോജക്ടുകൾ മറ്റ് പ്രോജക്ടുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മറ്റു പ്രോജക്ട് മാനേജ്മെൻറ് കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെൻറ് എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോജക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടിസ്ഥാനപരമായി രണ്ടുതരം സോഫ്റ്റ്വെയർ പ്രോജക്ടുകൾ ഉണ്ട് പെണ്ണ് ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു അവ ജനറിക് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടുന്നു രണ്ടാമത്തേത് സേവനങ്ങൾ അല്ലെങ്കിൽ ഇച്ഛാനുസൃത സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് സ്വയം വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് അത് കിട്ടാൻ മാർക്കറ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ഓൺലൈനായി ഓർഡർ ചെയ്തു നേടാം ഇവ പൊതുവായവ യാണ് ഉദാഹരണത്തിന് ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഒരു ആൻറിവൈറസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ് സിസ്റ്റം തുടങ്ങിയവ ഇവ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളാണ് അവർ നിരവധി ആപ്ലിക്കേഷനുകൾ ആയി ഉപയോഗിക്കുന്നു കുറേ പേർക്ക് അവിടെ പോയി വാങ്ങാൻ സാധിക്കും മറുവശത്ത് സേവനങ്ങൾ വികസിപ്പിക്കേണ്ടത് ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയറാണ് ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി നേരിട്ട് നേടാനാകില്ല വാഹനത്തിന് ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു ബിസിനസ് ഹൌസ് ആഗ്രഹിക്കുന്നു ഇതിനായി നിങ്ങൾക്ക് ഓൺലൈനിൽ സോഫ്റ്റ്വെയർ നേടാനും ഇൻസ്റ്റോൾ ചെയ്യുവാനും പൂർത്തിയാക്കാനും കഴിയില്ല കൈകാര്യം ചെയ്യേണ്ട ഇനങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ സംഭരണശാല യും മറ്റും തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഈ ഉപഭോക്താവിന് പ്രത്യേകമായി ഇവ വികസിപ്പിക്കേണ്ടതുണ്ട് ആണ് സേവനങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടാനുസൃത സോഫ്റ്റ് വെയർ മൊത്തം ബിസിനസ് ഏകദേശം നാല് ബില്യൻ ഡോളറാണ് എന്ന്നമ്മൾ കണ്ടു ഇപ്പോൾ മൊത്തം സോഫ്റ്റ്വെയർ ബിസിനസ് ഉൽപന്നങ്ങളിൽ പകുതിയും സേവനങ്ങളിൽ പകുതിയും ആണ് എന്നാൽ സേവന വിഭാഗം അതിവേഗം വളരുകയാണ് സേവനങ്ങളുടെ പ്രൊജക്റ്റുകൾ കൂടുതൽ പതിവായി കൊണ്ടിരിക്കുന്നു ഉൽപ്പന്ന വികസനം കുറയുന്നു സേവന പ്രോജക്റ്റുകൾ വളരെ വേഗത്തിൽ വളരുന്നതിനും പ്രോജക്ടുകളുടെ പ്രോജക്ട് തരം കുറയുന്നതിനും കാരണമെന്താണ് അതിനുള്ള കാരണം നമുക്ക് തിരിച്ചറിയാം പക്ഷേ അതിനുമുമ്പ് ജനറിക് സോഫ്റ്റ്വെയർ ഓരോ ഉൽപ്പന്നങ്ങളും അവയെ പാക്കേജ് ചെയ്ത സോഫ്റ്റ്വെയർ എന്ന് വിളിക്കു ഇത് വാങ്ങുന്നതിന് മുൻകൂട്ടി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അവ ഓൺലൈൻ വാങ്ങാം അല്ലെങ്കിൽ സ്റ്റോറിൽനിന്ന് നേടാം അവിടെ നടന്നു ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ് പാക്കേജ് നേടുക സേവനം ഒരു ഇച്ഛാനുസൃത സോഫ്റ്റ്വെയറാണ് ഉപയോക്താക്കളുടെ അഭ്യർത്ഥനപ്രകാരം വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണിത് എന്നാൽ സേവനവും അങ്ങനെയാകാം മറ്റൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഡെവലപ്പർ തയ്യാറാക്കുന്ന ഒരു ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയർ ആണ് ഇത് അതിനാൽ നിങ്ങൾക്ക് ഇൻവെന്ററി മാനേജ്മെൻറ് സോഫ്റ്റ്വെയർ inventory മാനേജ്മന്റ് സോഫ്റ്റ്വെയർ വേണം ഡെവലപ്പർമാർക്ക് മറ്റൊരു ബിസിനസ്സിനായി ഇൻവെന്ററി മാനേജ്മെൻറ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അത് നിങ്ങൾക്ക് നൽകുകയും വേണം അതിനാൽ ഇത് മറ്റൊരുതരം പ്രോജക്ട് ആണ് ഇവിടെ പ്രധാനമായും മൂന്നുതരം പ്രോജക്ടുകൾ രണ്ട് പ്രോജക്റ്റുകൾ ഉണ്ട് ഒന്ന് ഉൽപ്പന്ന വികസനപദ്ധതികളും സേവന പദ്ധതികളും സേവന പ്രോജക്ടിൽ നമുക്ക് ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയർ വികസനം ഒരു അഭിമുഖത്തിനായി പൂർണമായും വികസിപ്പിച്ചെടുക്കുക യാണ് അല്ലെങ്കിൽ ഇത് ഒരു ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയർ ആണ് എന്നാൽ നിങ്ങൾ നിലവിലുള്ള ഒരു സോഫ്റ്റ്വെയർ നെയ്തെടുക്കുക ഉൽപ്പന്ന വികസനത്തെ രണ്ട് തരങ്ങളായി തിരിക്കാം അന്ന് തിരശ്ചീന കമ്പോളമാണ് പലതരം ഉപഭോക്താക്കളിൽ ഉടനീളം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് തിരശ്ചീന കമ്പോളത്തിൽ ആയുള്ള ഒരു ഉത്തരമാണിത് ഉദാഹരണത്തിന് ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഇത് ഒരു തിരശ്ചീനം ആണ് അത് തിരശ്ചീന കമ്പോളത്തിൽ ആയിട്ടുള്ളതാണ് ഞാൻ ഒരു ലംബ മാർക്കറ്റ് എന്നത് ഒരു നിർദിഷ്ട വ്യവസായത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ബാങ്ക് സോഫ്റ്റ്വെയർ ബാങ്കിംഗ് മാത്രമാണ് ബാങ്കുകൾ ഉപഭോക്താവ് ആയിരിക്കും അത് ഒരു ലംബം കമ്പോളമാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയട്ടെ മൊബൈൽ ഉപഭോക്താക്കളെ ബില്ലിംഗ് ചെയ്യുതു അത് ഉപയോഗിക്കും അതിനാൽ അത് മൊബൈൽഫോൺ വിൽപ്പനക്കാർക്ക് ഉള്ളതാണ് അതും ലൈവ് വിപണി ഉല്പന്നങ്ങളും സേവനങ്ങളും ആയി രണ്ടു തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു എന്നാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ ഇൻഫോർമേഷൻ സിസ്റ്റങ്ങൾ തരംതിരിക്കാം അത് ഡാറ്റ സംഭരിക്കുന്നു സംഭരിച്ച് ഡാറ്റാ പ്രോസസ്സ് ചെയ്യുന്നത് ഡാറ്റയും സ്ഥിതിവിവരക്കണക്കുകളും അവതരിപ്പിക്കുന്നു ഇതാണ് സാധാരണ മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ഇൻവെന്ററി മാനേജ്മെൻറ് പേഷ്യന്റ് മാനേജ്മെൻറ് തുടങ്ങിയവ ഇത് അധിഷ്ഠിത അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സോഫ്റ്റ്വെയർ ആകാം അതേപോലെ മറ്റൊരു തരാം സോഫ്റ്റ്വെയർ അന്ന് എംബെഡ്ഡ്ഡ് സിസ്റ്റം ഇത് ഹാർഡ്വെയർ ഇനെ നിയന്ത്രിക്കും ഉദാഹരണത്തിന് ഒരു ഓട്ടോമൊബൈൽ നിയന്ത്രണ സോഫ്റ്റ്വെയർ ഒരു ന്യൂക്ലിയർ പവർ പ്ലാൻറ് നിയന്ത്രണ സോഫ്റ്റ്വെയർ റോബോട്ടുകൾ കളിപ്പാട്ടങ്ങൾ ടിവി റിമോട്ട് തുടങ്ങിയവ അതിനാൽ ഉൽപ്പന്ന വികസനത്തിനു സേവനത്തിനും ഇടയിൽ ഉള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ട മറ്റൊരു വർഗ്ഗീകരണം എന്നാൽ അവയെ തരംതിരിക്കുകയും ഉള്ള മറ്റൊരു മാർഗ്ഗം ഇൻഫോർമേഷൻ സിസ്റ്റം പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എംബെഡ്ഡ്ഡ് സോഫ്റ്റ്വെയർ വികസന പ്രോജക്റ്റുകൾ ആകാം ഈ അടിസ്ഥാന ആശയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും നമ്മൾ ഈ പ്രഭാഷണത്തിന് അവസാനത്തിൽ എത്തി അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് അടിസ്ഥാനമാക്കി കുറച്ച് അടിസ്ഥാന ആശയങ്ങളും കൂടി ഉണ്ടാകും ഞങ്ങൾ ഈ ഘട്ടത്തിൽ നിർത്തി അടുത്ത് പ്രഭാഷണത്തിൽ തുടരും